തിരികെ സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 41 ആണ് ഇതിൽ സ്പാനിംഗ് സെറ്റ് നെക്കുറിച്ച് ആണ് സംസാരിക്കാൻ പോകുന്നത് അതിനാൽ വെക്റ്റർ സ്പേസ് നിർവ്വചിക്കുന്നതിന് നമ്മൾ നിരവധി ആശയങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് അവയിലൊന്നാണ് സ്പാനിംഗ് സെറ്റ് ഇവിടെ നമ്മൾ ആദ്യം ലീനിയർ സ്പാനിനെക്കുറിച്ച് സംസാരിക്കും തുടർന്ന് സ്പാനിംഗ് സെറ്റിനെക്കുറിച്ച് സംസാരിക്കും എന്താണ് ലീനിയർ സ്പാൻ നമുക്ക് നൽകിയിരിക്കുന്ന എന്നീ വെക്ടറുകളുടെ ഒരു സ്പാൻ എന്നത് ഈ വെക്റ്ററുകളുടെ ഈ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളുടെയും ഗണമായി നമ്മൾ നിർവചിക്കുന്നു ഇതിനെ സാധാരണയായി SPAN എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ കൃത്യമായി ഇത് എന്ന് നൽകിയ ലീനിയർ കോമ്പിനേഷനാണ് ഇതിലെ ലാംഡകൾ രേഖീയ സംഖ്യയുടെ ഗണത്തിൽ പെടുന്നു

അതിനാൽ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളുടെയും ഒരു കൂട്ടമാണിത് നമ്മൾ ഇതിനെ SPAN എന്നു വിളിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളുടെയും കളക്ഷനെ എന്നീ വെക്ടറുകളുടെ ലീനിയർ സ്പാൻ എന്ന് വിളിക്കുന്നു ഇവിടെ ഒരു പ്രശ്നം നമ്മൾ ഇപ്പോൾ ചർച്ചചെയ്യും ഈ വെക്റ്റർ ഇത് ഒരു കോളം വെക്റ്റർ ആണ് പക്ഷേ റോ വെക്റ്ററുകളുമായും നമുക്ക് ചെയ്യാൻ കഴിയും തന്നിരിക്കുന്ന വെക്റ്റർ എന്നീ വെക്റ്റർകളുടെ ലീനിയർ സ്പാനിൽ ഉള്ളതാണ് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് പരിശോധിക്കേണ്ടത് ഈ രണ്ട് വെക്റ്ററുകളുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി ഈ വെക്റ്ററിനെ നമുക്ക് എഴുതാൻ കഴിയുമോ കാരണം ഇവിടെ തന്നിരിക്കുന്ന വെക്റ്റർ മറ്റു രണ്ടു വെക്റ്ററുകളുടെയും സ്പാനിലുള്ള വെക്റ്ററാണോ എന്നതാണ് ചോദ്യം അപ്പോൾ ഈ വെക്റ്ററുകളുടെ സ്പാൻ എന്താണ് ഈ രണ്ട് വെക്റ്ററുകളുടെയും എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും ഇത് ഈ വെക്റ്ററുകളുടെ ഒരു സ്പാനിൽ നിന്നുള്ളതാണോയെന്ന് പരിശോധിക്കുന്നതിന് ഈ വെക്റ്റർ ഈ രണ്ട് വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണോ എന്ന് നമ്മൾ പരിശോധിക്കും അതിനാൽ അടിസ്ഥാനപരമായി എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്നിവ കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത്തരം കൾ കണ്ടെത്താൻ സാധ്യമാണോ അതോ സാധ്യമല്ലയോ ഇത് സാധ്യമല്ലെങ്കിൽ ഇവിടെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് ഇത് കൺസിസ്റ്റന്റ് സിസ്റ്റം ആണെങ്കിൽ അത് എന്നിവ നൽകുന്നു അതിനാൽ ഇതിന് ഉത്തരം നൽകുന്നതിന് ഓഗ്മെന്റഡ് മാട്രിക്സി ന്റെയും റോ റെഡ്യൂസ്ഡ് എക്കെലോൺ മാട്രിക്സിന്റെയും ആശയത്തിലേക്ക് തിരികെ വരണം റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം നമ്മുടെ ലെക്ച്ചറുകളിൽ വളരെ പ്രധാനമാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഗോസ്സ് എലിമിനേഷൻ ഉപയോഗിച്ച് സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിൽ ഈ ആശയം നമ്മൾ ഉപയോഗപ്പെടുത്തും റോ എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തുകഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള പരിഹാരമാണ് പുറത്തെടുക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഇത് റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോംലേക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ഈ ആശയം പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഘടകങ്ങൾ 0 ആക്കേണ്ടതുണ്ട് ഈ ഘടകം സമവാക്യ നമ്പർ 1 ന്റെ സഹായത്തോടെ 0 ആക്കേണ്ടതുണ്ട് എന്നിട്ട് ഈ ഘടകം സമവാക്യ നമ്പർ 1 ന്റെ സഹായത്തോടെ 0 ആക്കേണ്ടതുണ്ട് അതിനാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്തായിരിക്കുമെന്ന് ഞാൻ ഇവിടെ നേരിട്ട് എഴുതുന്നു

ഇതാണ് നമുക്ക് ലഭിക്കുന്ന റോ റെഡ്യൂസ്ഡ് എക്കെലോൺ ഫോം ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് നിഗമനം ചെയ്യാം കാരണം ഇപ്പോൾ നമ്മുടെ ആദ്യ നിരയ്ക്ക് ഒരു പിവറ്റ് ഘടകമുണ്ട് രണ്ടാമത്തെ നിരയ്ക്ക് പിവറ്റ് ഘടകവുമുണ്ട് എന്നാൽ ഇവിടെ പ്രശ്നം സമവാക്യത്തിന്റെ കൺസിസ്റ്റൻസിയിലാണ് അവസാന സമവാക്യം 0 എന്നത് 2 ന് തുല്യമാണെന്ന് പറയുന്നു അത് ഇവിടെ സാധ്യമല്ല അതിനർത്ഥം നമ്മൾക്ക് ഈ സിസ്റ്റം പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അതായത് എന്നിവയുടെ മൂല്യം കണ്ടെത്താനായി ഈ സിസ്റ്റം പരിഹരിക്കാൻ കഴിയില്ല നമ്മുടെ സമവാക്യങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആയതിനാൽ പരിഹാരമില്ല അതിനാൽ നൽകിയിരിക്കുന്ന ഈ സമവാക്യ സിസ്റ്റത്തിന് ഒരു പരിഹാരവും നമ്മൾക്ക് ലഭിക്കില്ല അതിനാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ എന്ന വെക്റ്റർ എന്നീ വെക്റ്ററുകളുടെ സ്പാനിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് അതിനാൽ ഇവിടെ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആയതിനാൽ നമ്മൾക്ക് ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതാൻ കഴിയില്ല അതിനാൽ ഇവിടെ മറ്റൊരു നല്ല റിസൾട്ട് ഉണ്ട് നമ്മൾ അതിൻറെ ഔപചാരിക തെളിവുകളിലൂടെ കടന്നുപോകില്ല പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചില അവബോധമെങ്കിലും നമ്മൾ കാണും S എന്ന സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് V യുടെ സബ്സെറ്റ് ആണെങ്കിൽ SPAN ഒരു സബ്സ്പേസ് ആയിരിക്കും എന്താണ് SPAN വെക്റ്ററുകളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും അത് V യുടെ സബ്സ്പേസ് ആണ് എന്താണ് ഇതിൻറെ പ്രോപ്പർട്ടി വെക്റ്ററുകളുടെ ഏതെങ്കിലും രണ്ട് വെക്റ്റർ കളക്ഷൻ നമ്മൾ എടുക്കും തുടർന്ന് ഇതിന്റെ സ്പാൻ നിങ്ങൾക്ക് വെക്റ്റർ സ്പേസ് നൽകും അതിനാൽ SPAN ഒരു സബ്സ്പേസ് ആണ് എന്നതിനർത്ഥം ഇത് വെക്റ്റർ സ്പേസ് V യുടെ ഒരു സബ്സ്പേസ് ആണെന്നതാണ് അതിന്റെ എലെമെന്റുകളെ നമ്മൾ മൂന്ന് സബ്സെറ്റുകളായി എടുത്തിട്ടുണ്ട് കൂടാതെ ഇത് സെറ്റ് S അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമാണ് അതിനാൽ S അടങ്ങിയിരിക്കുന്നതും വെക്റ്റർ സ്പെയ്സുമായിട്ടുള്ള ഇതിന്റെ മറ്റൊരു ചെറിയ സബ് സെറ്റ് ഉണ്ടാകരുത് അതിനാൽ വെക്റ്ററുകളുടെ സെറ്റ് അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ വെക്റ്റർ സ്പേസ് ആണ്ഇത് അതിനാൽ ഇവിടെ തെളിവുകളുടെ ആശയം കാണുന്നതിന് ഇത് നമ്മുടെ സെറ്റ് എന്ന് എടുക്കുന്നു സ്പാൻ ഓഫ് S എന്നത് ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്നതാണ് നമുക്ക് കാണിക്കേണ്ടത് വെക്റ്റർ സ്പേസ് എന്ന് കാണിക്കുന്നതിന് അതിനുള്ള രണ്ട് പ്രോപ്പർട്ടികളും കാണിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഇവിടെ സബ് സ്പേസിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ട് ക്ലോഷർ പ്രോപ്പർട്ടികളും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇതിനർത്ഥം നിങ്ങൾ ഈ സെറ്റിന്റെ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എടുക്കുന്നു അവയുടെ വെക്റ്റർ അഡിഷനും ഇതേ സെറ്റിലായിരിക്കണം കൂടാതെ ഈ സെറ്റിനെ ഒരു സ്കെയിലർ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന പുതിയ എലെമെന്റും ഈ സെറ്റിൽ തന്നെയായിരിക്കണം അതിനാൽ ഇവിടെ ഈ u v∈SPAN എന്ന് കരുതുക ഇപ്പോൾ u∈SPAN v∈SPAN നമുക്ക് ഈ u v എന്നിവ കളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതാം അതിനാൽ ഇവിടെ ഇത് ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് എന്നും വെക്റ്റർ കളുടെ ലീനിയർ കോമ്പിനേഷൻകളായി നമ്മൾ എഴുതിയിട്ടുണ്ട് കളും കളും വ്യത്യസ്തങ്ങളായ സ്കാലറുകൾ ആയിരിക്കും എന്ന കാര്യം ശ്രദ്ധിക്കുക എന്നാൽ u മറ്റൊരു വെക്റ്ററാണ് ഇത് ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഇത് വ്യത്യസ്തമായ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് v മറ്റൊരു വെക്റ്റർ അതിനാൽ നമ്മൾക്ക് അവിടെ മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ ഉണ്ട് അതിനാൽ SPAN ൽ നിന്ന് നമ്മൾ എടുത്ത ഈ രണ്ട് വെക്റ്ററുകളും അവ കളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ അവ ചേർത്താൽ അതായത് u v എടുത്താൽ എന്ത് സംഭവിക്കും ഇത് എന്ന് ആയിരിക്കും ഇത് വീണ്ടും കളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് കാരണം കളും കളും റിയൽ നമ്പറുകൾ ആകുമ്പോൾ അവയുടെ ആകെത്തുക യും റിയൽ നമ്പറുകൾ ആണ് അതിനാൽ നമ്മൾക്ക് ഇത് വീണ്ടും ഒരു ലീനിയർ കോമ്പിനേഷനായി ഉണ്ട് ഇത് SPAN ൽ ഉൾപ്പെടുകയും ചെയ്യും കാരണം SPAN ൽ കളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷനും അടങ്ങിയിരിക്കുന്നു ഇത് ഒരു ലീനിയർ കോമ്പിനേഷനും ആണ് അതിനാൽ തീർച്ചയായും ഇത് SPAN ൽ ഉൾപ്പെടും മറ്റൊരു പ്രോപ്പർട്ടി ക്ലോഷർ പ്രോപ്പർട്ടിയാണ് ഇവിടെയുള്ള ഏതെങ്കിലും സ്കെയിലർ ഉപയോഗിച്ച് ഗുണിക്കുമ്പോൾ നമ്മൾ ഇവിടെ c യെ ഒരു സ്കെയിലറായി എടുക്കുന്നു ഈ സി വെക്റ്ററിലേക്ക് ഗുണിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും നമുക്ക് cu ലഭിക്കും നമ്മൾ u എഴുതുമ്പോൾ u ഒരു ലീനിയർ കോമ്പിനേഷനാണ് നമ്മൾ ഇതിനകം ഇവിടെ എഴുതിയത് എന്നാണ് u നെ എഴുതപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരു സ്ഥിരാങ്കം ഒരു സ്കെയിലർ c കൊണ്ട് ഗുണിച്ചാൽ ക്ക് എന്ത് സംഭവിക്കും ഈ സ്കെയിലർ c ഇവിടെ ലേക്ക് ഗുണിച്ചാൽ അത് മറ്റൊരു റിയൽ നമ്പർ ആണ് ഇത് കളുടെ മറ്റൊരു ലീനിയർ കോമ്പിനേഷനാണ് അതിനാൽ ഒരിക്കൽ നമുക്ക് ഈ ലീനിയർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും ഈ സ്പാൻ ൽ ഉള്ളതായതിനാൽ ഈ എലെമെന്റും SPAN ൽ ഉൾപ്പെടുന്നു അതിനാൽ നമ്മൾ ഇവിടെ കണ്ടത് ക്ലോഷർ പ്രോപ്പർട്ടികൾ തൃപ്തികരമാണ് എന്നാണ് അതിനർത്ഥം ഇത് SPAN ഒരു വെക്റ്റർ സബ്സ്പേസ് ആകുന്നു എന്നതാണ് കൂടാതെ മറ്റെന്താണ് നമ്മൾ കാണിക്കേണ്ടത് S ന്റെ എലെമെന്റുകൾ അടങ്ങിയിരിക്കുന്ന ഏതൊരു സബ് സ്പേസിലും ഒരു SPAN അടങ്ങിയിരിക്കുന്നുവെന്ന് നമ്മൾ കാണിക്കേണ്ടതുണ്ട് അതിനുള്ള കാരണം ഇവിടെ വ്യക്തമാണ് എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും SPAN ൽ അടങ്ങിയിരിക്കുന്നു എന്നതിനാൽ അതിനാൽ നിങ്ങൾക്ക് ഒരു വെക്റ്റർ സ്പേസ് പരിഗണിക്കുന്നുവെന്ന് കരുതുക നിങ്ങൾക്ക് ഇവിടെ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട് അതിൽ ഈ സെറ്റ് S ഇവിടെ അടങ്ങിയിരിക്കുന്നു ആ വെക്റ്റർ സ്പേസ്നെ w എന്ന് വിളിക്കുന്നു അത് S ഉൾക്കൊള്ളുന്നു ഇത് ഒരു വെക്റ്റർ സ്പേസ് ആയതിനാൽ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും അവിടെ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ രണ്ട് ഘടകങ്ങൾ ചേർക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം ഒടുവിൽ എല്ലാ ലീനിയർ കോമ്പിനേഷനുകളും ഈ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം ഇതിനർത്ഥം ഇതിന് SPAN ഉം ഉണ്ടാകും S അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് എന്ന് അത് നമ്മോട് പറയുന്നു കാരണം S അടങ്ങിയിരിക്കുന്ന മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഈ SPANS ഉം അതിൽ അടങ്ങിയിരിക്കും അത് അങ്ങനെയാകരുത് ഇത് ഏറ്റവും ചെറിയ സബ് സ്പേസ് അല്ല അതിനാൽ നമ്മൾഇവിടെ എന്താണ് പഠിച്ചത് SPAN എന്താണെന്ന് ഒരു വെക്റ്റർ സ്പേസിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും വെക്റ്ററുകൾ എടുക്കുന്നു ഈ വെക്റ്ററുകളുടെ സ്പാൻ ഉള്ളതിനാൽ അത് ആ വെക്റ്റർ സ്പേസ് V യുടെ ഒരു വെക്റ്റർ സബ് സ്പേസ് ഉണ്ടാക്കുന്നു അതോടൊപ്പം മറ്റൊന്ന് ഉണ്ട് ഇതിനെ സ്പാനിംഗ് സെറ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് സ്പാനിംഗ് സെറ്റ് ഇവിടെയുള്ള സെറ്റ് വെക്റ്റർ സ്പേസ് V യുടെ ഒരു സ്പാനിങ് സെറ്റ് ഫോം ചെയ്യുന്നു അതിനാൽ ഇത് ഈ വെക്റ്റർ സ്പേസ് V യുടെ ഒരു സ്പാനിങ് സെറ്റ് ആണെന്ന് നമ്മൾവിളിക്കും ആ വെക്റ്റർ സ്പേസ് V യിൽ നിന്ന് എടുക്കുന്ന ഏതെങ്കിലും v ക്ക് എന്നീ സ്കെയിലറുകൾ എക്സിസ്റ് ചെയ്യുന്നു എങ്ങനെയെന്നാൽ ഈ v എന്ന എലമെന്റ് അവയുടെ ലീനിയർ കോമ്പിനേഷന് തുല്യമായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഇത് വെക്റ്റർ സ്പേസ് V യുടെ ഒരു സ്പാനിങ് സെറ്റ് ആണെന്ന് നമ്മൾവിളിക്കുന്നു ഈ വെക്റ്റർ സ്പേസിന്റെ ഏതൊരു എലമെന്റ്നെയും ഈ സെറ്റ്ന്റെ അതായത് എന്നിവയുടെ ലീനിയർ കോമ്പിനേഷൻ ആയി നമുക്ക് എഴുതാൻ സാധിച്ചാൽ ഈ സെറ്റ് വെക്റ്റർ സ്പേസ് V യെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയാം ഈ സ്പാനിംഗ് സെറ്റ് വളരെ പ്രധാനമാണ് സ്പാനിംഗ് സെറ്റ് നമ്മൾക്ക് ലഭിച്ചുകഴിഞ്ഞാൽ അടിസ്ഥാനപരമായി വെക്റ്റർ സ്പേസ്ന്റെ ഏതെങ്കിലും വെക്റ്ററിനെ ഇവയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി എഴുതാം ഇവിടെ ഒരു ഉദാഹരണം എന്നീ വെക്റ്ററുകളെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ഇത് യുടെ ഒരു സ്പാനിംഗ് സെറ്റ് രൂപപ്പെടുത്തുന്നു അതിനർത്ഥം നമ്മൾ കാണിക്കേണ്ടതെന്താണ് ഈ യുടെ ഏതെങ്കിലും ഒരു എലമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി നമുക്ക് എഴുതാൻ കഴിയണം അതാണ് ഈ സ്പാനിംഗ് സെറ്റിന്റെ അർത്ഥം അതിനാൽ ഈ എന്നീ വെക്ടറുകൾ വെക്റ്റർ സ്പേസ് യുടെ ഒരു സ്പാനിംഗ് സെറ്റ് എങ്ങനെ സൃഷ്ടിക്കുന്നുവെന്ന് പരിശോധിക്കാം ൽ നിന്നുള്ള ഒരു ജെനെറൽ വെക്റ്റർ എടുക്കുന്നു ഏതൊരു വെക്ടറിനെയും ഇങ്ങനെ സൂചിപ്പിക്കാം നമ്മൾ ൽ ഒന്നും നിയന്ത്രിക്കുന്നില്ല അവ ഏതെങ്കിലും റിയൽ നമ്പറാകാം അതായത് ഈ വെക്റ്റർ ഈ ന്റേതാണ് ഇത് ഒരു പൊതു വെക്റ്റർ ആണെങ്കിലും ഇത് ഈ ൽ നിന്നുള്ള ഏതെങ്കിലും വെക്റ്റർ ആകാം ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഈ ൽ നിന്നുള്ള പൊതു വെക്റ്ററായ ഈ വെക്റ്റർനെ ഈ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി നമുക്ക് എഴുതാം ഈ സാഹചര്യത്തിൽ ഇത് നിസ്സാരമായിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഘടനയെ വിളിക്കുന്ന മറ്റൊരു പേരുമായി പിന്നീട് നമ്മൾ വരും സ്റ്റാൻഡേർഡ് വെക്ടറുകൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബെയ്സിസ് എന്ന് നമ്മൾ വിളിക്കും ഈ ടെർമിനോളജികൾ നിങ്ങൾ പിന്നീട് പരാമർശിക്കും ഇവിടെ നമുക്ക് എന്നിവ ഉണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ ആദ്യത്തെ വെക്റ്ററിനെ രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നീ സംഖ്യകളാൽ ഗുണിക്കേണ്ടതുണ്ട് താഴെ കാണും പ്രകാരം അതിനാൽ ഈ വെക്റ്റർ സ്പേസ് യുടെ ഏത് വെക്റ്ററും എന്നിവയുടെ ഇതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയി നമുക്ക് എഴുതാം ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് കാണാൻ എളുപ്പമായിരുന്നു മറ്റൊരു ഉദാഹരണം നമ്മൾ സംസാരിക്കുന്നത് എന്നീ വെക്റ്ററുകളെക്കുറിച്ച് ആണ് ഇത് ഈ യുടെ ഒരു സ്പാനിങ് സെറ്റായി മാറുന്നു ഇത് എങ്ങനെയാണ് ഒരു സ്പാനിങ് സെറ്റ് രൂപപ്പെടുത്തുന്നത് വെക്റ്ററുകൾ ആയി എടുത്ത ഒരു ഉദാഹരണം നമ്മൾ ഇതിനകം കണ്ടു ഇത് മറ്റൊരു സെറ്റാണ് തുടർന്ന് ഇവ ഈ യുടെ ഒരു സ്പാനിങ് സെറ്റ് രൂപപ്പെടുത്തുകയാണെന്ന് നമ്മൾവീണ്ടും അവകാശപ്പെടുന്നു അതിനാൽ സ്വാഭാവികമായും ഈ സ്പാനിംഗ് സെറ്റ് യൂനിക് അല്ല നമുക്ക് വ്യത്യസ്ത വെക്റ്ററുകളുടെ ഒരു സെറ്റ് ഉണ്ടായിരിക്കാനും ഇതേ വെക്റ്റർ സ്പേസ് സ്പാൻ ചെയ്യാനും കഴിയണം അതിനാൽ ഇവിടെ ഇത് മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ ഈ സെറ്റിനും യെ സ്പാൻ ചെയ്യാൻ കഴിയും അതായത് ഈ മൂന്ന് വെക്റ്ററുകളുടെയും ലീനിയർ കോമ്പിനേഷൻ ആയി ഈ യുടെ ഏത് എലെമെന്റും നമുക്ക് എഴുതാം ഇത് കാണുന്നതിന് നമ്മൾ ഈ ൽ നിന്ന് ഒരു പൊതു വെക്റ്റർ എടുക്കും തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയി ഈ എഴുതാൻ നമ്മൾ ശ്രമിക്കും അതായത് ഇപ്പോൾ ഒരു ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാൻ കഴിയുമോ എന്നതാണ് ചോദ്യം കാരണം മുമ്പത്തെ കേസ് പോലെ ഇവിടെ നിസ്സാരമല്ലെങ്കിലും ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ നമ്മൾ എന്തുചെയ്യും ഈ മൂന്ന് സമവാക്യങ്ങളും നമ്മൾ പരിഹരിക്കും അതിനാൽ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോംലേക്ക് റെഡ്യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ സമവാക്യം നേരിട്ട് പരിഹരിക്കാനും കഴിയും നമ്മൾഅത് ചെയ്യേണ്ടതില്ല കാരണം ഈ മൂന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നു അതിനാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് എന്ന് ഉത്തരം ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ സമവാക്യം എടുക്കും അത് എന്ന് നൽകുകയും ഈ സമവാക്യ നമ്പർ 3 ൽ നിന്ന് നൽകുകയും ചെയ്യും അതിനാൽ ലീനിയർ കോമ്പിനേഷൻ ഇവിടെ ലഭിച്ചു ഈ വെക്റ്റർ എന്നീ വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാൻ കഴിയും അതിൽ ആദ്യത്തെ സ്കാലാർ രണ്ടാമത്തെ സ്കാലാർ മൂന്നാമത്തെ സ്കാലാർ അതിനാൽ ഈ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത സെറ്റ് മുമ്പത്തെ ഉദാഹരണത്തിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സെറ്റാണെന്ന് നമ്മൾ കണ്ടു പക്ഷേ ഇത് വീണ്ടും ഈ യുടെ സ്പാനിങ് സെറ്റ് കൂടിയാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ എന്താണ് ഉള്ളത് നമുക്ക് ഈ ഉദാഹരണ നമ്പർ 3 ഉണ്ട് ഇവിടെ നമ്മൾ എന്നീ വെക്റ്ററുകൾ എടുക്കുന്നു ഇതിൽ ആദ്യത്തെ 3 എണ്ണം മുമ്പത്തെ ഉദാഹരണത്തിൽ നിന്ന് എടുത്തതാണ് നമ്മൾ ഒരെണ്ണം കൂടി എന്ന് എടുത്തു ഇപ്പോൾ ഇവിടെ നമ്മളുടെ സെറ്റ് വലുതാണ് ഇതും യുടെ സ്പാനിങ് സെറ്റായി മാറുന്നു അതാണ് നമ്മൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് അതിനാൽ നിലവിലുള്ള സെറ്റും നമ്മൾഈ വെക്റ്റർ കൂടി ചേർത്തു ഇതും ഒരു സ്പാനിങ് സെറ്റ് ഉണ്ടാക്കുന്നു സ്പാനിംഗ് സെറ്റിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വ്യത്യസ്ത എണ്ണം ഘടകങ്ങൾ ഉണ്ടായിരിക്കാം സെറ്റിലെ വ്യത്യസ്ത ഘടകങ്ങൾ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഇത് എങ്ങനെയാണ് ഒരു സ്പാനിങ് സെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾപരിശോധിക്കും അതിനാൽ ഏതൊരു ജനറൽ വെക്റ്ററി നും നമ്മൾ വീണ്ടും എന്താണ് പരിഗണിക്കേണ്ടത് ഈ നാല് വെക്റ്ററുകളുടെ ലീനിയർ കോമ്പിനേഷനായി എഴുതാൻ കഴിയുമോ എന്നതാണ് അതായത് അതിനാൽ ഈ റെഡ്യൂസ്ഡ് ഫോം നമ്മൾക്ക് ഇവിടെയുണ്ട് ഇപ്പോൾ ഈ റെഡ്യൂസ്ഡ് ഫോമിൽ നിന്ന് നമുക്ക് അത്തരം ലാംഡാസ് ലഭിക്കുമോ അല്ലെങ്കിൽ അത്തരം ലാംഡാസ് ലഭിക്കാൻ കഴിയുന്നില്ലേ എന്ന് നമ്മൾനിരീക്ഷിക്കും അതിനാൽ പിവറ്റ് ഘടകങ്ങളിലേക്ക് വീണ്ടും മടങ്ങിവരുന്നു ആദ്യ നിരയ്ക്ക് ഒരു പിവറ്റ് ഉണ്ട് രണ്ടാമത്തെ നിരയ്ക്ക് പിവറ്റ് ഘടകവും മൂന്നാമത്തെ നിരയ്ക്ക് ഒരു പിവറ്റ് ഘടകവുമുണ്ട് അതിനാൽ നമ്മൾക്ക് മൂന്ന് പിവറ്റ് ഘടകങ്ങളുണ്ട് ഇവിടെ നാലാമത്തെ നിരയ്ക്ക് പിവറ്റ് ഘടകം ഇല്ല അതിനാൽ ഇതിന് സമാനമായ ഒരു ഫ്രീ വേരിയബിളാണ് മറ്റെല്ലാ ലാംഡാകളും ഈ ന്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും അതിനാൽ നമുക്ക് ഇപ്പോൾ എന്താണ് ലഭിക്കുന്നത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ന് എഴുതാൻ സാധ്യമായ അത്തരം ലാംഡാകൾ നമുക്കുണ്ടോ എന്നത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് നിരവധി ചോയ്സുകൾ ഉണ്ട് ഈ നൽകുന്നതിന് ഈ ലാംഡാസിനായി നമ്മൾക്ക് നിരവധി ചോയ്സുകൾ ഉണ്ട് വാസ്തവത്തിൽ ഇത് ഇപ്പോൾ യൂനിക് അല്ല ഈ റെപ്രെസെന്റഷൻ യൂനിക് അല്ല അതേസമയം മുമ്പത്തെ സന്ദർഭങ്ങളിൽ ഒരാൾക്ക് ഈ എക്കലോൺ ഫോം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും കഴിയും അതിനാൽ ഈ മൂന്ന് നിരകൾ മാത്രം പരിഗണിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും ഓരോ നിരയ്ക്കും ഒരു പിവറ്റ് ഉണ്ടാകും അത് അൻനോൺ കളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂനിക് റെപ്രെസെന്റഷൻ ലഭിക്കും അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾക്ക് ഈ വെക്റ്റർ ഇല്ലാതിരുന്നപ്പോൾ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഈ ന്റെ യൂനിക് റെപ്രെസെന്റഷൻ നമ്മൾക്ക് ഉണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സംഭവിച്ചത് നമ്മൾക്ക് ഒരു യൂനിക് റെപ്രെസെന്റഷൻ ഇല്ല പക്ഷേ നമുക്ക് റെപ്രെസെന്റ് ചെയ്യാൻ കഴിയും ഈ ൽ നിന്ന് ഏത് വെക്റ്ററും ഈ നാല് വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാം അതിനാൽ ഇത് ഒരു സ്പാനിംഗ് സെറ്റാണ് മുമ്പത്തെ ഉദാഹരണത്തിൽ നിന്ന് ഈ ഉദാഹരണത്തിലേക്കുള്ള ഒരേയൊരു വ്യത്യാസം നമുക്ക് യൂനിക് അല്ലാത്ത ഒരു റെപ്രെസെന്റഷൻ ഉണ്ട് എന്നതാണ് ഇപ്പോൾ തിരഞ്ഞെടുത്ത് കണക്കുകൂട്ടുക എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾക്ക് ഇപ്പോൾ അനന്തമായ നിരവധി പരിഹാരങ്ങളുണ്ട് ഇതൊരു യൂനിക് അല്ലാത്ത റെപ്രെസെന്റഷൻ ആണ് ആദ്യത്തെ രണ്ട് ഉദാഹരണങ്ങളിൽ ഇത് ഒരു യൂനിക് റെപ്രെസെന്റഷൻ ആണ് ഇവിടെയുള്ള വ്യത്യാസം അതായിരുന്നു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് യൂനിക് അല്ലാത്ത റെപ്രെസെന്റഷൻ ഉണ്ട് ഈ ഉദാഹരണം 4 ലേക്ക് മടങ്ങിയെത്തുമ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും മൂന്ന് വെക്റ്ററുകളുണ്ടെന്ന് കാണാം ഇവ മൂന്ന് വ്യത്യസ്ത വെക്റ്ററുകളാണ് പക്ഷേ അവ യെ സ്പാൻ ചെയ്യുന്നില്ല ഉദാഹരണം 1 ലും ഉദാഹരണം 2 ലും നമുക്ക് യെ സ്പാൻ ചെയ്യുന്ന മൂന്ന് വെക്റ്ററുകളാണുണ്ടായിരുന്നത് അത് അർത്ഥമാക്കുന്നത് യുടെ ഏതൊരു വെക്ടർനെയും നമുക്ക് നൽകിയ വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ എഴുതാം എന്നാണ് നമുക്ക് ഉദാഹരണം 1 ൽ എന്നിങ്ങനെ വെക്ടർകൾ ഉണ്ടായിരുന്നു ഉദാഹരണം 1 ൽ നിന്നുള്ള മൂന്ന് വെക്റ്ററുകളായിരുന്നു ഇവ ഉദാഹരണം 2 ഇത് ആണെന്ന് ഞാൻ ഊഹിക്കുന്നു ഇത് ഉദാഹരണം നമ്പർ 2 ൽ നിന്നായിരുന്നു അതിനാൽ ൽ നിന്നുള്ള മൂന്ന് വ്യത്യസ്ത എലെമെന്റുകൾ ആയിരുന്നെങ്കിലും അവ സ്പാൻ ചെയ്യുന്നു അവ യെ സ്പാൻ ചെയ്യുന്നു അർത്ഥമാക്കുന്നത് ന്റെ ഏത് എലെമെന്റിനെയും ഈ വെക്റ്ററുകളുടെ രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും എന്നാൽ എല്ലാ സാഹചര്യത്തിലും ൽ നിന്ന് ഏതെങ്കിലും മൂന്ന് എലെമെന്റുകൾ എടുത്ത് ഈ സ്പാനിംഗ് സെറ്റ് രൂപപ്പെടുത്തുക എന്നത് സാധ്യമല്ലെന്ന് നമ്മൾ നിരീക്ഷിക്കും ഇത് എങ്ങനെ പരിശോധിക്കാം നമ്മൾ പതിവുപോലെ ഇവിടെ ഒരു ജെനറൽ വെക്റ്റർ എടുക്കും ഇതിനെ എന്നിവയുടെ രൂപത്തിൽ എഴുതാൻ നമ്മൾ ശ്രമിക്കും അതിനാൽ കോഫിഫിഷ്യന്റ് മാട്രിക്സിനൊപ്പം ഇപ്പോൾ നമുക്ക് വെക്റ്റർ ആഗ്മെന്റഡ് മാട്രിക്സ് ഉണ്ട്

ഇപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താണ് നിരീക്ഷിക്കുന്നത് ഇവിടെ നമുക്ക് പിവറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ഒരു പിവറ്റ് ഉണ്ട് ഇവിടെ ഇൻകൺസിസ്റ്റൻസി യുള്ള പിവറ്റിനെക്കുറിച്ച് മറക്കുക യിലെ എലെമെന്റുകൾ ഏതെങ്കിലും റിയൽ നമ്പറുകൾ ആവാം കാരണം ഇവിടെ നമ്മുടെ വെക്റ്റർ ൽ നിന്നാണ് യിലെ ഏതെങ്കിലും ആര്ബിട്രേരി വെക്റ്റർ ഇത് 0 ആയിരിക്കുമെന്ന് നമ്മൾക്ക് നിരീക്ഷിക്കാൻ കഴിയില്ല ഇത് ഒരു പൂജ്യമല്ലാത്ത ഒന്നായിരിക്കും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും 0 എന്തോ സീറോ അല്ലാത്തതിന് തുല്യമാണ് എന്നായിരിക്കും കിട്ടുക അതിനാൽ ഈ സിസ്റ്റം ൽ നിന്നുള്ള പൊതുവായ എന്ന വെക്റ്ററിനായി പരിഹരിക്കാൻ കഴിയില്ല അതിനർത്ഥം സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ നൽകിയ വെക്റ്ററുകളുടെ ഒരു ലീനിയർ കോമ്പിനേഷനായി നമുക്ക് എഴുതാൻ കഴിയില്ല അതിനാൽ നമ്മൾ നിരീക്ഷിച്ചത് എന്താണ് സംഖ്യകൾക്ക് പ്രാധാന്യമില്ല ൽ നിന്ന് മൂന്ന് എലെമെന്റുകൾ നമ്മൾ ഇവിടെ എടുത്തു മൂന്നാമത്തെ ഉദാഹരണത്തിൽ ൽ നിന്ന് നാല് ഘടകങ്ങൾ നമ്മൾ എടുത്തു ആദ്യ രണ്ട് ഉദാഹരണങ്ങളിൽ നമ്മൾ എടുത്തത് മൂന്ന് എലെമെന്റുകൾ മാത്രമാണ് ആദ്യ രണ്ട് കേസുകളിൽ തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ ൽ നിന്ന് എടുക്കുന്ന ഒരു വെക്റ്ററിനായി നമ്മൾക്ക് ഒരു യൂണിക് റെപ്രെസെന്റഷൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഉദാഹരണത്തിൽ നമ്മൾ 4 എലെമെന്റുകൾ എടുത്തതും ഒരു സ്പാനിങ് സെറ്റായിരുന്നു എന്നാൽ അവിടെ നിങ്ങൾക്ക് ഒരു വെക്റ്ററിന്റെ യൂണികല്ലാത്ത റെപ്രെസെന്റഷൻ ലഭിക്കുന്നു ഈ അവസാനത്തെ ഉദാഹരണത്തിൽ നമ്മൾക്ക് ൽ നിന്ന് മൂന്ന് വെക്റ്ററുകൾ ഉണ്ടെങ്കിലും ൽ നിന്നുള്ള ഒരു ജെനെറൽ എലെമെന്റിനെ റെപ്രെസെന്റ് ചെയ്യാൻ അവ പര്യാപ്തമല്ല അതിനാൽ ഇത് യുടെ സ്പാനിങ് സെറ്റ് രൂപീകരിക്കുന്നില്ല നമ്മൾ കൺക്ലൂഷൻലേക്ക് വരുന്നു ലീനിയർ സ്പാൻ എന്നത് തന്നിരിക്കുന്ന വെക്റ്ററുകളുടെ എല്ലാ ലീനിയർ കോമ്പിനേഷനുകടെയും ഒരു സെറ്റാണ് എന്ന സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് യുടെ ഒരു സ്പാനിംഗ് സെറ്റ് എന്ന് നമ്മൾവിളിക്കും എന്ന വെക്റ്റർ സ്പേസിലെ എന്ന ഏത് എലെമെന്റിനെയും ഇതേ വെക്റ്റർ സ്പേസിലെ എന്നീ എലെമെന്റുകളുടെ രൂപത്തിൽ നമുക്ക് റെപ്രെസെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ തുടർന്ന് എന്ന സെറ്റ്നെ വെക്റ്റർ സ്പേസ് യുടെ ഒരു സ്പാനിംഗ് സെറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു ഈ ലെക്ച്ചറുകൾ തയ്യാറാക്കുന്നതിനുപയോഗിച്ചിട്ടുള്ള റഫറൻസുകൾ ഇവയാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി